കട്ടർ പാത്ത് ജനറേഷൻ കൺക്ലൂഡിങ് പാർട്ട് ആൻഡ് കറന്റ് സ്റ്റാറ്റസ് CNC മെഷീനിങ് ആൻഡ് റിലേറ്റഡ് പ്രെസെസ്സെസ് കമ്പ്യൂട്ടർ ന്യൂമെറിക്കൽ കണ്ട്രോൾ ഓഫ് മെഷീൻ ടൂൾസ് ആൻഡ് പ്രോസസ്സ് എന്ന ഓപ്പൺ ഓൺലൈൻ കോഴ്സിനെക്കുറിച്ചുള്ള 19 ാമത് പ്രഭാഷണത്തിലേക്ക് കാഴ്ചക്കാരെ സ്വാഗതം ചെയ്യുന്നു ഫ്രീ ഫോം സർഫസുകൾ മെഷീൻ ചെയ്യുന്നതിനുള്ള കട്ടർ പാത്ത് ജനറേഷനെക്കുറിച്ചുള്ള സമാപന പ്രഭാഷണം ഇന്ന് നമ്മൾ നടത്തും ശേഷിക്കുന്ന സമയത്ത് ഈ പ്രത്യേക മേഖലയിലെ നിലവിലെ ചില ട്രെൻഡുകൾ നമ്മൾ ചർച്ച ചെയ്യും ആരംഭിക്കുന്നതിന് ഐസോപാരാമെട്രിക് മെഷീനിംഗിനെയും ഐസോപ്ലാനർ മെഷീനിംഗിനെയും കുറിച്ചുള്ള ചർച്ച നമ്മൾ ഇതിനകം പൂർത്തിയാക്കി ഐസോപ്ലാനർ മെഷീനിംഗിനായുള്ള ഫോർവേഡ് സ്റ്റെപ്പ് കണക്കുകൂട്ടൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ അവസാന ഭാഗം ഐസോസ്കല്ലോപ്പ് മെഷീനിംഗ് എടുക്കും ഇത് ഉപരിതലത്തിലുടനീളം തുല്യ ഉയരമുള്ള റഫ്നെസ്സ് സ്കല്ലോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനാൽ സ്കല്ലോപ്പ് ഉയരം സ്ഥിരമായി നിലനിർത്തുന്നു ഇത് യൂണിഫോം സർഫസ് റഫ്നെസ്സിലേക്ക് നയിക്കുന്നു റിടണ്ടൻറ് മെഷീനിംഗ് ഇല്ലാത്തതിനാൽ ഇതിന് കുറച്ച് മെഷീനിംഗ് സമയമേ ആവശ്യമാകുന്നുള്ളൂ സെക്കണ്ടറി കട്ടർ പാതകൾ മാസ്റ്റർ കട്ടർ പാതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് കൂടാതെ മാസ്റ്റർ കട്ടർ പാത്ത് സാധാരണയായി ഉപരിതലത്തിന്റെ അരികുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇത് ടൂളിന്റെ രണ്ട് സ്ഥാനങ്ങൾ വ്യത്യസ്തമായി കാണിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്തുള്ള രണ്ട് കട്ടർ പാതകളാണ് ഇത് മുറിക്കാതെ അവശേഷിക്കുന്ന മെറ്റീരിയലാണ് ഈ ഉയരത്തെ സ്കല്ലോപ്പ് ഹൈറ്റ് എന്ന് വിളിക്കുന്നു ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മൾ മുമ്പ് ഈ പദപ്രയോഗങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇവയാണ് ഡെറിവേറ്റീവുകൾ ഉദാഹരണത്തിന് u ദിശയിലുള്ള ഉപരിതലത്തിന്റെ ഡെറിവേറ്റീവ് അതുമായിത്തന്നെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രത്യേക മൂല്യം നൽകുന്നു അത് E ന് തുല്യമാണ് F എന്നത് Ru Rv യുടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് Rw Rw ഡോട്ട് പ്രോഡക്റ്റ് ആണ് G ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തു ഈ സാഹചര്യത്തിൽ 1R ആയി എടുക്കുന്ന വക്രതയുടെ പദപ്രയോഗമാണിത് L N E F G എന്നിങ്ങനെ നിങ്ങൾ മുമ്പ് നിർവചിച്ചിട്ടുള്ള എല്ലാ സ്ഥിരാങ്കങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു അതിനോടൊപ്പം നമ്മൾക്ക് ഒരു dudt dwdt ഗുണിതം ഉണ്ട് ഇത് dudw ആയി ലളിതമാക്കാം ഇത് നമ്മൾ വക്രത പരിഗണിക്കുന്ന ദിശയനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ഈ പ്രത്യേക പ്രസിദ്ധീകരണത്തിലെ ഐസോസ്കലോപ്പ് മെഷീനിംഗിൽ മുന്നോട്ടുള്ള ഘട്ടം ആവർത്തനങ്ങളില്ലാതെ കണ്ടെത്തി മുന്നോട്ടുള്ള ഘട്ടം കണ്ടെത്താൻ ഐസോ പ്ലാനർ മെഷീനിംഗിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ആവർത്തനങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇവിടെ മുന്നോട്ടുള്ള ഘട്ടം ആവർത്തനങ്ങളില്ലാതെ കണ്ടെത്തുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു Ruw ഉപരിതലത്തിലെ മൂന്നാമത്തെ പാരാമീറ്റർ t യുടെ ഫംഗ്ഷനായി പ്രകടിപ്പിക്കുന്ന കട്ടർ പാതയിലെ ഇൻക്രിമെന്റ് പാരാമെട്രിക് നിങ്ങൾക്കറിയാം അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഉള്ളത് ഈ പ്രത്യേക കട്ടർ പാത്ത് ഇവിടെയുണ്ട് ഈ പ്രാരംഭ ഘട്ടത്തിൽ ഈ ടാൻജെന്റ് എടുത്ത കട്ടർ പാതയിലൂടെ ഞങ്ങളുടെ ലക്ഷ്യം വർദ്ധിച്ചുവരുന്ന വർദ്ധനവ് കണ്ടെത്തുക എന്നതാണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പാരാമീറ്റർ മൂല്യം t2 ൽ നിന്ന് നിയുക്തമാക്കിയ ഈ പോയിന്റിലെത്താൻ ഞങ്ങളെ അനുവദിക്കും അതിനാൽ ശ്രദ്ധിക്കുക ഈ പോയിന്റുകളിൽ യഥാക്രമം കർവ് പൊസിഷൻ വെക്റ്റർ R R ആയിരിക്കുമ്പോൾ ഇതാണ് പരാമീറ്റർ മൂല്യം ഈ R എന്നത് ആരമല്ല എന്നാൽ ഈ R ആരമാണ് ഇതാണ് 1വക്രത ക്ഷമിക്കണം ഇത് അൽപ്പം ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം ഈ പ്രത്യേക വ്യത്യാസത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തുക ഇപ്പോൾ നമ്മൾ ടാൻജെന്റ് പരിഗണിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രസ്താവിക്കട്ടെ R ആയി പ്രകടിപ്പിക്കുന്ന കട്ടർ പാതയിലെ ആ പ്രത്യേക പാരാമെട്രിക് ഇൻക്രിമെന്റിൽ ആ പ്രത്യേക പാരാമെട്രിക് ഇൻക്രിമെന്റ് പ്രകടിപ്പിക്കുന്നു അത് നമുക്ക് സ്വീകാര്യമായ മുന്നേറ്റം നൽകും ഈ പദപ്രയോഗത്തിലൂടെ 8 e യുടെ വർഗ്ഗമൂല്യം ഇവിടെ e എന്നത് ഫോം ടോളറൻസ് വക്രതയാൽ ഹരിച്ചാൽ 4 e വർഗ്ഗം ഉപരിതലത്തിന്റെ 1 ആം അടിസ്ഥാനം കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഉള്ളത് Rt അതായത് കട്ടർ പാതയിലെ ടാൻജെന്റ് ഒരു ചെയിൻ രൂപത്തിൽ പ്രകടിപ്പിക്കാം ഇത് പൂർണ്ണമായ ഡിഫറൻഷ്യലാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി drdt ചെയിൻ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു കാരണം R അടിസ്ഥാനപരമായി u w Rt എന്നിവയുടെ ഫംഗ്ഷൻ ആണ് Rt നമ്മൾ ടാൻജെന്റിന്റെ ഡോട്ട് പ്രോഡക്റ്റിനെ കട്ടർ പാതയിലേക്ക് കൊണ്ടുപോകുന്നു നമുക്ക് ഈ രണ്ട് ഡോട്ടുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ആത്യന്തികമായി ഇത് ഈ പദപ്രയോഗത്തിന് കാരണമാകുന്നു നമുക്ക് ഇത് എങ്ങനെ ലഭിക്കും ∂R ⁄∂u എന്നത് Ru എന്നും ∂R⁄∂w എന്നത് Rw ആയി പ്രകടിപ്പിക്കുകയും തുടർന്ന് നമ്മൾ Ru ഗുണിക്കുകയും ചെയ്യുന്നു മുമ്പ് നിർവചിച്ചതുപോലെ Ru നമുക്ക് e നൽകും അതിനാൽ ഈ പദം ഈ ലളിതമാക്കും നിങ്ങൾക്ക് ഇത് സ്വയം പരീക്ഷിക്കാൻ കഴിയും ഇത് നമ്മൾ മുമ്പ് നിർവചിച്ച ആദ്യ അടിസ്ഥാന രൂപമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നമ്മൾ ഇത് I എന്നതിന് തുല്യമാക്കുന്നു അങ്ങനെ Rt Rt ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി മാഗ്നിറ്റ്യൂഡിന്റെ വർഗ്ഗത്തെ ഉൾക്കൊള്ളുന്നു അതിനാൽ Rt യുടെ കേവല മൂല്യം ഒന്നാം അടിസ്ഥാന രൂപത്തിന് മുകളിൽ റൂട്ട് അല്ലാതെ മറ്റൊന്നുമല്ല ഈ Rt യുടെ ഒരു എക്സ്പ്രഷൻ ലഭിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് പൈതഗോറസ് സിദ്ധാന്തം R സ്ക്വയർ R - e സ്ക്വയർ എന്നത് ഈ സൈഡ് സ്ക്വയറിന് തുല്യമായിരിക്കണം ഇത് ഇവിടെ പ്രകടിപ്പിക്കുന്നു ഈ പ്രത്യേക ദൂരം Rt ∆t എന്നു നമ്മൾ പ്രകടിപ്പിക്കുന്നു അതിന്റെ പകുതി Rt × ∆t2 ന് തുല്യമാണ് കാരണം Rt അടിസ്ഥാനപരമായി drdt ×∆t2 ആണ് പ്രത്യേക ആംഗിൾ വളരെ ചെറുതായതിനാൽ ഈ പൂർണ്ണമായ ദൂരം നമുക്ക് ടാൻജെന്റിന്റെ ദിശയിൽ നൽകും ഇതിൽ നിന്ന് നമുക്ക് എളുപ്പം ലളിതമാക്കാൻ കഴിയും ഞാൻ ഇത് നിങ്ങൾക്ക് വിട്ടുതരുന്നു ∆t ഇതായിരിക്കുമെന്ന് നമുക്ക് എളുപ്പത്തിൽ ലളിതമാക്കാൻ കഴിയും അതിനാൽ നമ്മൾ ആവർത്തനം ഒഴിവാക്കുകയും കട്ടർ പാതയിലൂടെ പാരാമീറ്ററിന്റെ ∆t വർദ്ധനവിന്റെ ഒരു എക്സ്പ്രഷൻ നേടുകയും ചെയ്യുന്നു സ്വീകാര്യമായ മുന്നേറ്റം നൽകുക ഇതിനുശേഷം നമ്മൾ സൈഡ്സ്റ്റെപ്പിലേക്ക് വരുന്നു ഐസോസ്കലോപിന്റെ കാര്യത്തിൽ സൈഡ്സ്റ്റെപ്പ് എങ്ങനെയാണ് എടുക്കുന്നത് ഒരു രീതി ഇതായിരിക്കാം നിലവിലുള്ള ഒരു കട്ടർ പാത ഈ വഴിക്ക് നീങ്ങുന്നത് കാണുകയും മുന്നോട്ടുള്ള ചുവടുകൾ ഏകദേശം കണക്കാക്കുകയോ അല്ലെങ്കിൽ ഫോർവേഡ് സ്റ്റെപ്പ് അനുസരിച്ച് പോയിന്റുകൾ കണക്കാക്കുകയോ ചെയ്തുകഴിഞ്ഞാൽ അവയുടെ സ്ഥാനങ്ങൾ ഇതിനകം നിർണ്ണയിച്ചിരിക്കുന്നു അതായത് ഈ ചെറിയ നീല വൃത്തങ്ങളാണ് ടൂൾ സ്ഥാപിക്കുന്നതെങ്കിൽ അത് നമുക്ക് സ്വീകാര്യമായ മുന്നോട്ടുള്ള ഘട്ടങ്ങൾ നൽകും തുടർന്ന് നമ്മൾ കട്ടർ പാതയുടെ സ്ഥാനങ്ങൾ കട്ടർ കോൺടാക്റ്റ് പോയിന്റുകൾ എന്നിവ കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിന്റെ വശത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഈ പ്രത്യേക കട്ടറിലെ സ്ഥാനങ്ങൾ നമ്മൾ കണക്കാക്കാൻ ശ്രമിക്കുന്നു നമുക്ക് സ്വീകാര്യമായ വഴിത്തിരിവ് നൽകുന്ന പാത ഇതിനായി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുക്കേണ്ട ഈ പ്രത്യേക ഘട്ടം തീർച്ചയായും ഒരു വെക്റ്റർ നിർവചിക്കുമെന്ന് നമ്മൾ പറയുന്നു അതിന്റെ ദിശയും വ്യാപ്തിയും നമ്മൾ കണ്ടെത്തുന്നു അത് ഒരു വെക്റ്ററിനുണ്ട് അതിനാൽ ആദ്യം നമ്മൾ പറയുന്നത് 1st കട്ടർ പാതയിലെ കട്ടർ പൊസിഷന്റെ ഈ പ്രത്യേക സ്ഥലത്ത് ഏത് ദിശയിലേക്കാണ് സൈഡ്സ്റ്റെപ്പ് പരിഗണിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം കണ്ടെത്താം അതിനാൽ ഒന്നാം കട്ടർ പാതയിൽ ഈ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഈ കട്ടർ പാതയിലേക്കുള്ള ടാൻജെന്റ് അടിസ്ഥാനപരമായി ഒരിക്കൽ കൂടി ഈ പ്രത്യേക ടാൻജെന്റ് നൽകുന്ന Rt ഈ കട്ടർ പാതയിലൂടെ ഈ ഘട്ടത്തിൽ കട്ടറിന്റെ ദിശ നൽകുന്നു നമ്മൾ അതിന് ലംബമായ ഒരു ദിശയിൽ സൈഡ്സ്റ്റെപ്പ് എടുക്കും അതിനാൽ ഈ ഘട്ടത്തിൽ ഉപരിതലത്തിലെ ടാൻജെൻഷ്യൽ ദിശ കട്ടർ ടാൻജന്റ് ഉപയോഗിച്ച് 90 ഡിഗ്രി ഉണ്ടാക്കുന്നു ആ പ്രത്യേക ടാൻജെന്റ് ദിശ സൈഡ്സ്റ്റെപ്പിന്റെ ദിശയെ അടയാളപ്പെടുത്തുമെന്ന് നമ്മൾ പറയും അതിനാൽ നമ്മൾ പറയുന്നത് എന്നോട് ക്ഷമിക്കണം പെട്ടെന്ന് R ന് പകരം P അബദ്ധത്തിൽ വന്നതാണ് ഞാൻ അർത്ഥമാക്കുന്നത് w മാറ്റി v ആണ് ഇത് അടിസ്ഥാനപരമായി മറ്റൊന്നിനെയും പ്രതിനിധീകരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുക അതിനർത്ഥം ദയവായി ഇത് എന്ന് വായിക്കുക ശരി മറ്റൊന്നുമല്ല പൊതുവായ ടാൻജെന്റിന്റെ ഈ പദപ്രയോഗം നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് അതിനാൽ നമ്മൾ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മൾ പരിഗണിക്കുന്ന രണ്ട് ടാൻജെന്റുകളുണ്ട് അവ നമുക്ക് ഒരു 0 നൽകാൻ ഡോട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതായത് അവ പരസ്പരം ഓർത്തോഗണൽ ആണ് അവ പരസ്പരം ലംബമാണ് ഒരു ടാൻജെന്റ് കട്ടർ പാത്ത് ദിശയിൽ ഇതിനകം നിലവിലുള്ള ടാൻജെന്റ് ആണ് മറ്റൊന്ന് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല നമ്മൾ അത് പരിഹരിക്കാൻ പോകുന്നു അതിനാൽ കട്ടർ പാതയുടെയും സൈഡ്സ്റ്റെപ്പ് ദിശയുടെയും ഓർത്തോഗണാലിറ്റി നിർവചിക്കുന്ന ബന്ധമാണിത് ഈ പദപ്രയോഗം കട്ടർ പാതയിലെ സ്പർശനത്തെയും Ru Rw എന്നിവയെയും പ്രതിനിധീകരിക്കുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് ഇതിലും ഇത് Ru Rw എന്നിവ ആയിരിക്കണം അവയും ഇവിടെ കണക്കാക്കുന്നു എന്തുകൊണ്ട് Ru Rw എന്നിവ മാറ്റമില്ലാത്തതിനാൽ അവ dudt dwdt തുടങ്ങിയ ദിശയെ ആശ്രയിക്കുന്നില്ല ഇവ ടാൻജെന്റ് പരിഗണിക്കുന്ന ദിശയെ ആശ്രയിച്ചിരിക്കും അതിനാൽ മുമ്പത്തെ എക്സ്പ്രഷൻ ഡോട്ട് പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ആത്യന്തികമായി dwdu ലഭിക്കും നമ്മൾ dt പദങ്ങൾ റദ്ദാക്കും dwdu ഇത് സൈഡ്സ്റ്റെപ്പ് ദിശയിലുള്ള ടാൻജെന്റിന്റെ ദിശ നൽകുന്നു അതിനാൽ ഇത് ഒന്നാമതായി ഉപരിതല സ്ഥിരാങ്കങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഇത് കട്ടർ പാതയുടെ ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു dv du യഥാർത്ഥത്തിൽ dwdu ആയിരിക്കണം ഇത് ആ പ്രത്യേക പോയിന്റിലെ കട്ടർ പാത്ത് ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് സ്ഥാപിച്ച ശേഷം കട്ടർ സൈഡ്സ്റ്റെപ്പ് ഏത് ദിശയിലേക്കാണ് എടുക്കേണ്ടതെന്ന് നമ്മൾക്കറിയാം കട്ടർ സൈഡ്സ്റ്റെപ്പ് മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കണം എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അതിനായി നമ്മൾ ലളിതമായ ജ്യാമിതിയുടെ സഹായം എടുക്കുന്നു ഉപരിതലം കുത്തനെയുള്ളതാണെങ്കിൽ തൊട്ടടുത്തുള്ള കട്ടർ പാതകളിൽ കട്ടറിന്റെ 2 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും ഇവ വെവ്വേറെ കട്ടർ പാതകളിൽ അരികിലായിരിക്കും മുറിക്കാതെ അവശേഷിക്കുന്ന ചെറിയ അളവിലുള്ള മെറ്റീരിയലിന്റെ ഭാഗമാണിത് കൂടാതെ PX സ്കല്ലോപ്പിന്റെ ഉയരത്തെ സൂചിപ്പിക്കുന്നു അത് ഇവിടെ എഴുതിയിരിക്കുന്നു PX സ്കല്ലോപ്പ് ഉയരം AB കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം വ്യക്തമായും ഇവ കട്ടർ നോസിന്റെ വൃത്താകൃതിയിലുള്ള രണ്ട് സ്ഥാനങ്ങളുടെ കേന്ദ്രങ്ങളാണ് ഇതിനെ 2a എന്ന് വിളിക്കുന്നു എന്നിരുന്നാലും L M എന്നിവയിലെ 2 കട്ടർ കോൺടാക്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ് സൈഡ്സ്റ്റെപ്പ് അതിനാൽ LM എന്നത് സൈഡ് സ്റ്റെപ്പുകളെ സൂചിപ്പിക്കുന്നു അതിനാൽ നമ്മൾ ഇവിടെ നിന്ന് സ്ഥാപിക്കാൻ പോകുന്നത് ഇവ ആത്യന്തികമായി ഉപരിതലത്തിന്റെ വക്രതയുടെ കേന്ദ്രത്തിൽ കൂടിച്ചേരുന്നതിനാൽ നമുക്ക് സമാനമായ ത്രികോണങ്ങളുണ്ട് അതിൽ LM AB കൊണ്ട് ഹരിച്ചാൽ അതിന്റെ വക്രതയുടെ ആരത്തിന് തുല്യമായിരിക്കും ഉപരിതലത്തെ കട്ടറിന്റെ വക്രതയുടെ ആരവും ഉപരിതലത്തിന്റെ വക്രതയുടെ ആരവും കൊണ്ട് ഹരിക്കുന്നു ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട് പിന്നീട് അല്ലെങ്കിൽ നമുക്ക് അത് പേപ്പറിൽ വേഗത്തിൽ എഴുതാം അതായത് നമുക്ക് ഇവിടെ കട്ടറിന്റെ 2 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണ് ഉപരിതലമെങ്കിൽ ഇത് ആദ്യത്തെ വരിയാണ് ഞാൻ അർത്ഥമാക്കുന്നത് വക്രതയുടെ ആരം അടങ്ങിയ നോർമലുകൾ ആണ് അതിനാൽ നമ്മൾ അടിസ്ഥാനപരമായി പറയുന്നത് ഇതാണ് സൈഡ്സ്റ്റെപ്പ് എങ്കിൽ ഇതാണ് മധ്യദൂരം എങ്കിൽ ഇത് കട്ടർ പാതയിലേക്കുള്ള പ്രതലത്തിന്റെ വക്രതയുടെ വലിയ ആരം R ആണെങ്കിൽ ഇത് കട്ടറിന്റെ വക്രതയുടെ ആരം ആണെങ്കിൽ നമുക്ക് R r എന്ന് പറയാം മധ്യ ദൂരം സൈഡ്സ്റ്റെപ്പ് കൊണ്ട് ഹരിച്ചാൽ R r വിഭജിക്കുന്നതിന് തുല്യമായിരിക്കണം R മുഖേന നമ്മൾ സ്ഥാപിക്കുന്നത് ഇതാണ് അതിനർത്ഥം നമ്മൾ സൈഡ്സ്റ്റെപ്പും മധ്യ ദൂരവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കാരണം ആത്യന്തികമായി ഈ പ്രത്യേക വ്യാപ്തി എത്രയാണെന്ന് നമ്മൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഈ മാഗ്നിറ്റ്യൂഡ് സ്ഥാപിച്ചുകഴിഞ്ഞാൽ സൈഡ്സ്റ്റെപ്പ് വെക്റ്ററിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമ്മൾക്ക് ലഭിച്ചുവെന്ന് നമ്മൾ പറയും അതിന്റെ ദിശ ഇതിനകം സ്ഥാപിച്ചു ഈ പ്രത്യേക മാഗ്നിറ്റ്യൂഡ് എനിക്കറിയാമെങ്കിൽ എനിക്ക് ഒരു നിശ്ചിത സ്കല്ലോപ്പ് ഉയരം നൽകുന്ന സൈഡ്സ്റ്റെപ്പ് ലഭിക്കുന്നതിന് എത്ര ദൂരം മാറണമെന്ന് എന്ന് എനിക്ക് പറയാൻ കഴിയും ഇതാണ് സ്കല്ലോപ്പ് ഉയരം അതിനാൽ നിങ്ങൾക്കറിയാവുന്ന കണക്കിലേക്ക് മടങ്ങുക ഈ പ്രത്യേക കണക്കിൽ നിന്ന് കുറച്ച് പൈതഗോറിയൻ ബന്ധങ്ങൾ ഉപയോഗിച്ച് സ്കല്ലോപ്പിന്റെ ഉയരം കണക്കാക്കാൻ കഴിയും അത് നോക്കാം നമ്മൾ ഈ കണക്കുകൂട്ടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്കുകൂട്ടലിലൂടെ പോകുന്നില്ല പക്ഷേ അവയിൽ ഒന്നോ രണ്ടോ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു നമ്മൾക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മട്ട ത്രികോണം XDB ഉണ്ടായിരിക്കും അതിലൂടെ നമ്മൾക്ക് XB എന്ന് പറയാൻ കഴിയും അത് കട്ടറിന്റെ ആരം അല്ലാതെ മറ്റൊന്നുമല്ല കട്ടറിന്റെ ആരം XD സ്ക്വയർ DB സ്ക്വയർ DB എന്നത് മധ്യ ദൂരത്തിന്റെ പകുതിയായിരിക്കും സംഭവിക്കുന്നത് അതുവഴി നമുക്ക് കട്ടർ ആരവും ഈ പ്രത്യേക ദൂരം XD യും ഉപയോഗിച്ച് കണക്കുകൂട്ടലിലേക്ക് മധ്യദൂരം ഉൾപ്പെടുത്താം XD കട്ടർ ഉയരവുമായി ബന്ധപ്പെട്ടിരിക്കും ഞാൻ അർത്ഥമാക്കുന്നത് സ്കല്ലോപ്പ് ഉയരം എന്നാണ് കൂടാതെ ഉപരിതലത്തിന്റെ ആരം ഞാൻ അർത്ഥമാക്കുന്നത് കട്ടർ പാതയ്ക്ക് ലംബമായ ഒരു ദിശയിലുള്ള ഉപരിതലത്തിന്റെ വക്രതയുടെ ആരം എന്നാണ് ഈ രീതിയിൽ ഈ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു ഇത് ഈ പ്രത്യേക റഫറൻസിൽ നിന്ന് എടുത്തതാണ് ഞാൻ അവ വിശദമായി പരിശോധിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും ഇത് പിന്തുടരാനാകും ഇത് ജ്യാമിതീയ സാമ്യതയുള്ള ത്രികോണങ്ങൾ ത്രികോണ സാമ്യത ബന്ധം എന്നിവയിൽ നിന്ന് വരുന്ന ബന്ധമാണ് അവിടെ നിന്ന് ഇവിടെ ചെറിയ r വലിയ R എന്നിങ്ങനെ ഒരു മൂല്യം മാറ്റിസ്ഥാപിക്കാം അതായത് ഉപരിതലത്തിന്റെ വക്രതയുടെ ആരം അതിനാൽ ഈ ബന്ധത്തിൽ A അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ആവർത്തിച്ച് പരിഹരിക്കാൻ കഴിയും അല്ലെങ്കിൽ വേരിയബിളുകളുടെ വേർതിരിക്കൽ നടത്താനും കഴിയുമെന്ന് നിങ്ങൾക്കറിയാം അതുവഴി ഈ പ്രത്യേക പാരാമീറ്റർ h R r എന്നിവയിൽ ഇത് പൂർണ്ണമായും പരിഹരിക്കാനാകും ഇത് മാറ്റിസ്ഥാപിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളുടെ കട്ടറിന്റെ ചെറിയ r ആരം ഉപരിതലത്തിന്റെ വക്രതയുടെ ആരം സ്കല്ലോപ്പ് ഉയരം എന്നിവയുടെ ഫംഗ്ഷനായി പുറത്തുവരുന്ന ഒരു പദപ്രയോഗം നമുക്ക് ലഭിക്കും അതിനാൽ ഒരു പ്രത്യേക ഉപകരണത്തിനും ഉപരിതല സംയോജനത്തിനും നമ്മൾ ഒരു നിശ്ചിത സ്കല്ലോപ്പ് ഉയരം വ്യക്തമാക്കിയാൽ ഉപരിതലത്തിലെ ഏത് ഘട്ടത്തിലും നമുക്ക് സൈഡ്സ്റ്റെപ്പ് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താനാകും നമ്മൾ അത് സ്ഥാപിച്ചുകഴിഞ്ഞാൽ അവസാനമായി നമ്മൾ ഒരു പദപ്രയോഗം അവതരിപ്പിക്കുന്നു അത് നിലവിലെ സൈഡ്സ്റ്റെപ്പ് സ്ഥാനം P ആണ് അവസാന സൈഡ്സ്റ്റെപ്പ് സ്ഥാനം ഞാൻ അർത്ഥമാക്കുന്നത് നിലവിലെ ടൂൾ സ്ഥാനം P ആണ് ടൂളിന്റെ സൈഡ്സ്റ്റെപ്പ് സ്ഥാനം P ആണ് അവ വ്യത്യസ്തമാകാം P ̇ u P എന്ന ആദ്യ ഡെറിവേറ്റീവ് മാത്രം ഉൾപ്പെടുന്ന ഒരു ടെയ്ലർ സീരീസ് വിപുലീകരണമായി പ്രകടിപ്പിക്കുക ദയവായി ഇത് P ̇Δw എന്ന് വായിക്കുക അതിനാൽ ഈ ടെയ്ലർ സീരീസ് വിപുലീകരണത്തിൽ ആത്യന്തികമായി നമുക്ക് Δu Δw എന്നിവയുടെ പരിഹാരം ലഭിക്കും ഇത് കട്ടറിന്റെ നിലവിലെ സ്ഥാനത്ത് നിന്ന് കട്ടറിന്റെ സൈഡ്സ്റ്റെപ്പ് സ്ഥാനത്തേക്കുള്ള പാരാമെട്രിക് ഇൻക്രിമെന്റുകൾ നൽകുന്നു ഇത് സർഫസ് റഫ്നെസ്സിന്റെ ശുപാർശിത മൂല്യം നൽകും ഇത് ഒരു സമവാക്യമാണ് നിങ്ങൾ ഓർക്കുന്നെങ്കിൽ നമ്മൾക്ക് ലഭിച്ച മറ്റേ സമവാക്യം എന്തായിരുന്നു Δw Δu എന്നിവയ്ക്കായി നമ്മൾക്ക് ലഭിച്ചത് ഇതായിരുന്നു ഇത് ഒരു സമവാക്യവും നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചത് മറ്റ് സമവാക്യവുമാണ് P P സൈഡ്സ്റ്റെപ്പ് അത് Δu Δv എക്സ്പ്രഷനുകൾക്ക് തുല്യമായതിനാൽ സൈഡ്സ്റ്റെപ്പിന്റെ വ്യാപ്തി ഇവിടെ നമ്മൾ ഇടുന്നു അതിനാൽ നമുക്ക് രണ്ട് സമവാക്യങ്ങൾ ലഭിക്കും ഇവ ഒരേസമയം ലളിതമായ സമവാക്യങ്ങളാണ് കൂടാതെ Δu Δw എന്നിവയ്ക്കായി നമുക്ക് പരിഹരിക്കാനാകും ഒരിക്കൽ നമ്മൾ ഇത് പരിഹരിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് ലഭിക്കുന്നു നമ്മൾക്ക് ദിശയും ലഭിച്ചു കൂടാതെ നമുക്ക് സൈഡ്സ്റ്റെപ്പ് സ്ഥാനങ്ങൾ കൃത്യമായി സൂചിപ്പിക്കാൻ കഴിയും uv പ്ലെയിനിൽ നമ്മൾ ഇതിലൂടെ വക്രം കടന്നുപോകുന്നു അതായത് uw പ്ലെയിനിൽ ഒരിക്കൽ അതിലൂടെ ഒരു വക്രം കടന്നുപോകുമ്പോൾ ഉപരിതലത്തിന്റെ അരികുകളിൽ ആരംഭിക്കുന്നതിനും നിർത്തുന്നതിനുമായി നമ്മൾ അത് വെട്ടിച്ചുരുക്കുകയോ നീട്ടുകയോ ചെയ്യുന്നു XYZ പ്ലെയിനിൽ ഇല്ലാതെ uw പ്ലെയിനിൽ ഈ കട്ടർ കോൺടാക്റ്റ് പോയിന്റുകളിലൂടെ എന്തിനാണ് ഈ വക്രം എന്ന വസ്തുതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേക്കാം ദയവായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത രീതിയും മറ്റ് ചില രീതികളും ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടർ പാത്ത് അവയ്ക്ക് 2 ഡൈമൻഷണൽ പരിഗണനകൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച ഐസോ സ്കല്ലോപ്പ് തന്ത്രത്തെ പിന്തുടർന്ന് വളഞ്ഞ പ്രതലങ്ങൾക്കായി കട്ടർ പാത്ത് സൃഷ്ടിക്കുന്നതിനുള്ള മറ്റൊരു രീതി നോക്കാം ചില പിശകുകൾ വരുത്തിയേക്കാവുന്ന ജ്യാമിതികൾ അതിനാൽ നമ്മൾ ഇത് ആരംഭിക്കുന്നു ഈ സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളും അവലംബിക്കാതെ ചിത്രപരമായ ഈ ചർച്ച ഇതാണ് സ്വതന്ത്ര രൂപത്തിലുള്ള ഉപരിതലം ഇതൊരു കട്ടർ പാതയാണ് 2002 ൽ പുറത്തിറങ്ങിയ ഫെംഗ് ആൻഡ് ലീ എന്നിവരുടെ ഒരു പേപ്പറിലാണ് ഇത് എടുത്തത് അതിനാൽ ഈ കട്ടർ പാത ആരംഭിക്കുന്നതിന് മുന്നോട്ടുള്ള ഘട്ടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക പോയിന്റുകളിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു ഈ പോയിന്റുകളിലെ ഉപരിതല നോർമലുകൾ നമ്മൾ നിർണ്ണയിക്കുന്നു ഈ പോയിന്റുകൾ CL പോയിന്റുകളാണ് ആ ബോൾ എൻഡ് മില്ലിംഗ് കട്ടറുകളുടെ നോസ് ഭാഗങ്ങളുടെ സെന്ററുകൾ ഒരു സ്മൂത്ത് കർവിനാൽ അവ ചേർക്കുന്നു ഈ സ്മൂത്ത് കർവിലേക്കുള്ള ടാൻജെന്റുകൾ നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ ഈ സ്ഥലങ്ങളിൽ നമുക്ക് കട്ടർ ദിശകൾ ലഭിക്കും അടുത്തതായി നമ്മൾ ഈ സ്ഥലങ്ങളിൽ കട്ടർ ബോൾ എൻഡിന്റെ സ്വെപ്റ്റ് സെക്ഷൻ വരയ്ക്കുന്നു കൂടാതെ സ്വീപ്പ് സെക്ഷനുകളാണ് മുറിക്കപ്പെടുന്ന ഗ്രോവിന്റെ ജ്യാമിതിയെ നിർവചിക്കുന്നത് നമ്മൾ എല്ലാ കൺസ്ട്രക്ഷൻ ലൈനുകളും നീക്കംചെയ്യുന്നു അടുത്തതായി കട്ടറിന്റെ സ്വീപ്പ് വിഭാഗങ്ങളുടെ കവലകൾ ഡിസൈൻ ഉപരിതലത്തിൽ നിന്ന് സ്കല്ലോപ്പ് ഉയരം അനുസരിച്ച് ഉപരിതല ഓഫ്സെറ്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്നു ഈ ഉപരിതലം ഡിസൈൻ ഉപരിതലത്തിൽ നിന്ന് അതിന്റെ നോർമൽ ആയിരിക്കും കൂടാതെ സ്കല്ലോപ്പ് ഉയരം അനുസരിച്ച് ബന്ധപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും കട്ടറിന്റെ സ്വീപ് ചെയ്ത ഭാഗങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ സ്കല്ലോപ്പ് കർവിന്റെ അറ്റങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നു അതിനാൽ ഇവ സ്കല്ലോപ്പിന്റെ അറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നു അതായത് 1 ആം കട്ടർ പാതയുടെ വശത്ത് ഈ പ്രത്യേക സ്ഥാനത്തിലൂടെയുള്ള മുഴുവൻ സ്കല്ലോപ്പ് ജ്യാമിതിയും അടുത്തതായി നമ്മൾ സ്കല്ലോപ്പ് ഓഫ്സെറ്റ് ഉപരിതലം നീക്കംചെയ്യുന്നു ഈ സ്കല്ലോപ്പ് ടിപ്പ് പോയിന്റുകളിലൂടെ ഒരു സ്മൂത്ത് കർവ് കടന്നുപോകുന്നു ഉപരിതലത്തിൽ സ്പർശിക്കേണ്ടതുണ്ടെന്നും അതും കടന്നുപോകേണ്ടതുണ്ടെന്ന പരിഗണനയിൽ നിന്ന് അടുത്തുള്ള കട്ടർ പാതയിലെ കട്ടറിന്റെ തൊട്ടടുത്ത സ്ഥാനം നമ്മൾ കണ്ടെത്തുന്നു സ്കല്ലോപ്പ് പോയിന്റുകൾ ഇതിനകം നിർണ്ണയിച്ചിരിക്കുന്നു കൂടാതെ മറ്റൊരു വ്യവസ്ഥയുണ്ട് സ്കല്ലോപ്പ് ടാൻജെന്റ് സ്കല്ലോപ്പ് ടാൻജെന്റ് എന്നതിനർത്ഥം സ്കല്ലോപ്പിന് സ്പർശിക്കുന്ന ടാൻജെന്റുകൾ സ്കല്ലോപ്പ് ടാൻജെന്റ് രണ്ടാമത്തെ കട്ടർ പാതയുടെ സ്വീപ്പ് സെക്ഷനുകളുടെ ആരം വെക്റ്ററുകളിലേക്ക് ലംബമായിരിക്കണം അതിനാൽ ഈ വ്യവസ്ഥ പ്രയോഗിക്കുമ്പോൾ സ്കല്ലോപ്പ് ടാൻജെന്റ് അത് ചിത്രത്തിൽ വരച്ചിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ സ്കല്ലോപ്പ് ടാൻജെന്റ് 1 ന്റെയും 2 ആം പാതയുടെയും സ്വീപ്പ് വിഭാഗത്തിന്റെ ആരം വെക്റ്ററിന് ലംബമായിരിക്കണം ഈ രണ്ട് സ്വീപ്പ് സെക്ഷനുകളും കോ പ്ലാനർ ആയിരിക്കുമെന്നുണ്ടോ സ്കല്ലോപ്പ് ടാൻജെന്റ് ഉള്ള ആ സ്വീപ്പ് വിഭാഗങ്ങളുടെ ആരം വെക്റ്ററുകൾ ലംബമായിരിക്കുമെങ്കിലും സ്വീപ്പ് ചെയ്ത വിഭാഗങ്ങൾ തന്നെ ഈ സ്കല്ലോപ്പ് ടാൻജെന്റിന് ലംബമായിരിക്കണമെന്നില്ല നമ്മൾ ഇവിടെ ഒരു സ്കല്ലോപ്പ് ടാൻജെന്റ് കാണിച്ചു അത് സ്വീപ്പ് ട്യൂബിന് ലംബമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു ഇത് സ്വീപ്പ് ട്യൂബിന് സ്പർശനമാണ് അതിനാൽ ഇത് ഇതിനെ ബന്ധിപ്പിക്കുന്ന റേഡിയസ് വെക്ടറിന് ലംബമാണ് ഇത് ഈ സ്കല്ലോപ്പ് പോയിന്റിനെ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്നു ഇത് ഈ പ്രത്യേക റേഡിയൽ രേഖയ്ക്ക് ലംബമാണ് പക്ഷേ ഇത് ഈ പ്ലെയിനുകൾൾക്ക് ലംബമല്ല ഇത് ആ പ്ലെയിനുകൾക്ക് ലംബമായിരുന്നെങ്കിൽ 2 സ്വീപ്പ് സെക്ഷനുകൾ ഒരേ തലത്തിൽ ഉള്ള കേസായി മാറുമായിരുന്നു അതിന് ദ്വിമാന ജ്യാമിതീയ കണക്കുകൂട്ടലുകൾ ബാധകമാകുമായിരുന്നു എന്നാൽ ഇത് അങ്ങനെയല്ല മുമ്പത്തേതുമായുള്ള ഈ പ്രത്യേക മോഡലിന്റെ വ്യത്യാസമാണിത് അതിനാൽ ഈ ചർച്ചയുടെ അവസാനം വ്യത്യസ്ത ഫോർവേർഡ് സ്റ്റെപ്പുകളും വ്യത്യസ്ത വശങ്ങളും ഉപയോഗിച്ച് വെട്ടിക്കുറച്ച ജോലികളുടെ 3 ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ വരുന്നു നിങ്ങൾക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നതുപോലെ ഇതിന് വലിയ ഫോർവേഡ് സ്റ്റെപ്പുകളും വളരെ പരുക്കൻ സൈഡ് സ്റ്റെപ്പ് പാറ്റേണും ഉണ്ട് അതിനാൽ റഫ്നെസ്സ് നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാകും എന്നാൽ ഇവ അത്ര അടുത്ത് കാണുന്നില്ലായിരിക്കാം അതിനാൽ ഈ ബോഡിയുടെ ഉപരിതലത്തിൽ ഏകദേശം ആ റഫ്നെസ്സ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും സൂക്ഷ്മമായി നോക്കുക അവയാണ് പ്രത്യക്ഷപ്പെടുന്ന റഫ്നെസ്സ് അടയാളങ്ങൾ CNC യുടെ നിലവിലെ അവസ്ഥ എന്താണ് ഇത് ഈ മെഷീനുകളുടെ മെഷീനിംഗിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് 3 ആക്സിസ് അല്ലെങ്കിൽ 5 ആക്സിസ് മുതലായവ അറിയാം CNC യ്ക്കായി കാലക്രമേണ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഫീൽഡുകളോ ആപ്ലിക്കേഷനുകളോ ഉണ്ട് റാപിഡ് പ്രോട്ടോടൈപ്പിംഗിന്റെ കാര്യത്തിൽ നമ്മൾ CNC പ്രയോഗിക്കുന്നു അവിടെ റാപിഡ് പ്രോട്ടോടൈപ്പിംഗിന്റെ മുഴുവൻ സാങ്കേതികവിദ്യയും CNC യെ ആശ്രയിച്ചിരിക്കുന്നു മെഷീന്റെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യത്യസ്ത സ്ലൈഡുകളുടെ ചലനങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങൾ ദ്രുതഗതിയിലുള്ള പ്രോട്ടോടൈപ്പിംഗിനായി ഞാൻ ചർച്ച ചെയ്തതുപോലെ വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ നടപ്പിലാക്കാൻ നമ്മൾക്ക് കഴിയില്ല അങ്ങനെ CNC ആശ്രിത സാങ്കേതികവിദ്യ വളരെ വേഗത്തിൽ വികസിക്കുന്നു ആത്യന്തികമായി മറ്റ് മേഖലകളിലേക്ക് നീങ്ങുന്നത് നിങ്ങൾക്കറിയാം ഉദാഹരണത്തിന് മധ്യതല ഉൽപ്പാദനത്തിൽ നമ്മൾക്ക് വഴക്കമുള്ള നിർമ്മാണ സംവിധാനങ്ങളുണ്ട് അത് അടിസ്ഥാനപരമായി കമ്പ്യൂട്ടർ നിയന്ത്രിതമാണ് വൻതോതിലുള്ള ഉൽപാദനത്തിൽ മാത്രമേ നമ്മൾക്ക് പ്രത്യേക ഉദ്ദേശ്യ യന്ത്രങ്ങൾ ഉള്ളൂ വിവിധ ജ്യാമിതികളുടെ പകർപ്പ് ഇപ്പോഴും നമ്മളുടെ പക്കലുള്ള മെഷീനിംഗിൽ ഭാഗികമായ പ്രത്യേക ടൂളിംഗ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യയുടെ വികസനം നമ്മൾ ക്രമേണ കൈവരിക്കുന്നു പാർട്ട് സ്പെസിഫിക് ടൂളിംഗ് എന്നാൽ അടിസ്ഥാനപരമായി നിർദ്ദിഷ്ട ഭാഗങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ടൂളുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ നമ്മൾ സ്പെസിഫിക് ടൂളിംഗ് ഫിസിക്കൽ ഉപകരണങ്ങൾ മുതലായവയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ CNC അത്തരം സാങ്കേതികവിദ്യ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നതായി നിങ്ങൾക്കറിയാം